നമ്മൾ നേരത്തെ നിർമ്മിച്ചത് വളരെ വലിയ ഗെയിൻ ഉള്ള ഓപ് ആമ്പ് ഉപയോഗിച്ചുള്ള നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ സർക്യൂട്ട് ആണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് A 0 യുടെ പരിധി അനന്തതയിലേക്കു പോകുന്ന സർക്യൂട്ടിനെ പറ്റിയാണ് നമ്മൾ നിർമ്മിച്ച സർക്യൂട്ട് ഇതാണ് ഇതിൽ ഔട്ട്പുട്ട് ലഭിച്ചത് റസിസ്റ്ററുകൾ R ഉം R ഉം ഉപയോഗിച്ച് V 0 k കിട്ടിയതിനുശേഷം അതിനെ ഇൻപുട്ട് ഉം ആയി താരതമ്യം ചെയ്താണ് അതായത് നമ്മൾ V i ഉം V 0 k ഉം തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിച്ച് അതിനെ ഓപ് ആമ്പിൻറെ ഇൻപുട്ടിലേക്ക് കൊടുത്തുകൊണ്ടാണ് അങ്ങനെയെങ്കിൽ ഔട്ട്പുട്ടിനെ ശക്തമായി നയിക്കുന്നത് V i ഉം V 0 k ഉം തമ്മിലുള്ള വ്യത്യാസം ആണ് V 0 വളരെ ചെറുതാണെങ്കിൽ അതിനെ ശക്തമായി പോസിറ്റീവ് ലേക്കും V 0 വളരെ വലുതാണെങ്കിൽ അതിനെ ശക്തമായി നെഗറ്റീവ് ലേക്കും നയിക്കുന്നു അങ്ങനെ അവസാനം നമ്മൾ കണ്ടു V 0 k×V i യ്ക്ക് വളരെ അടുത്താണ് എന്നുള്ളത് കൃത്യമായി പറയുകയാണെങ്കിൽ V 0 V i എന്നുള്ളത് k11kA0 ആണ് അതിൽ A 0 പലപ്പോഴും ഗെയിൻ x V i ആണ് ഇപ്പോൾ നിങ്ങൾ A0 യുടെ പരിധി അനന്തതയിലേക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം V 0 V i അതായത് k11kA0 കൃത്യമായി k യ്ക്ക് സമം ആണെന്നുള്ളത് എന്തെന്നാൽ A0 അനന്തതയിലേക്ക് പോകുമ്പോൾ ഇവിടെയുള്ള ഈ പദം പൂജ്യത്തിലേക്ക് പോകും അതായത് A0 അനന്തതയിലേക്ക് പോകുമ്പോൾ k A 0 പൂജ്യത്തിലേക്ക് പോകും ഇപ്പോൾ നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ ഈ സർക്യൂട്ട് നിർമ്മിക്കുന്നതിനായി നമ്മൾ യഥാർത്ഥത്തിൽ ഗെയിൻ k ഉള്ള ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തുടങ്ങിയത് അതായത് നമ്മുടെ ആവശ്യം V 0 V i k ആയിരുന്നു A0 അനന്തത യാണെങ്കിൽ കൃത്യമായി അതുതന്നെയാണു നമുക്ക് കിട്ടിയതും നമ്മൾ എന്തിനു വേണ്ടിയാണോ നോക്കിയിരുന്നത് അതു തന്നെയാണ് കൃത്യമായി നമുക്ക് കിട്ടിയത് പിന്നെ ഗെയിൻ A0 അനന്തമായിട്ടുള്ള ഓപ് ആമ്പ് ഉത്തമമായ ഓപ് ആമ്പ് എന്ന് അറിയപ്പെടുന്നു അപ്പോൾ ഇനി ഞാൻ പരിഗണിക്കാൻ പോകുന്നത് ഉത്തമമായ ഓപ് ആമ്പ് അഥവാ A0 അനന്തത ആയിട്ടുള്ള സാഹചര്യം ആണ് ഈ സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് താഴെ പറഞ്ഞിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ V 0 കൃത്യമായി k V i ക്ക് സമമാണ് കാരണം A0 എന്നുള്ളത് അനന്തയാണ് ഇത് അർത്ഥമാക്കുന്നത് ഇവിടെയുള്ള ഈ മൂല്യം V 0 k കൃത്യമായി Vi ക്ക് സമമാണ് അതിനാൽ ഓപ് ആമ്പിൻറെ ഇൻപുട്ട് വോൾട്ടേജ് വ്യത്യാസം Vd പൂജ്യമാണ് ഓപ് ആമ്പിൻറെ ഗെയിൻ അനന്തത ആക്കി നിശ്ചയിക്കുകയാണെങ്കിൽ ഇതാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഈ അവസ്ഥയിൽ ഇൻപുട്ടുകൾ തമ്മിലുള്ള വ്യത്യാസം Vd പൂജ്യമാണ് മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഓപ് ആമ്പിൻറെ രണ്ട് ഇൻപുട്ട് ടെർമിനലുകൾ ഉം കൃത്യമായി ഒരേ വോൾട്ടേജിൽ തന്നെയാണുള്ളത് അവയുടെ വ്യത്യാസം പൂജ്യം ആണ് അതായത് ഈ ടെർമിനലും ആ ടെർമിനലും ഒരേ വോൾട്ടേജിൽ ആണ് ഉള്ളത് ഓർക്കുക ഇത് A0 അനന്തമായതിൻറെ പരിണതഫലമായി സംഭവിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ കൂട്ടിയോജിപ്പിച്ച രണ്ട് നോഡുകൾ ഉണ്ടെങ്കിൽ അവർ തമ്മിലുള്ള വോൾട്ടേജ് വ്യത്യാസം കൃത്യമായി പൂജ്യമായിരിക്കും അതായത് രണ്ട് നോഡുകൾ ഉണ്ടെങ്കിൽ അവരുടെ ഇടയിൽ ഒരു ഷോർട്ട് വയ്ക്കുകയാണെങ്കിൽ ഈ രണ്ട് നോഡുകൾ തമ്മിലുള്ള വോൾട്ടേജ് വ്യത്യാസം പൂജ്യമായിരിക്കും ഈയൊരു സാഹചര്യത്തിൽ ഈ നോഡ് വോൾട്ടേജും ആ നോഡ് വോൾട്ടേജും തമ്മിലുള്ള വ്യത്യാസം അതായത് ഏത് നോഡുകളിലേക്ക് ആണോ ഓപ് ആമ്പിൻറെ രണ്ട് ഇൻപുട്ടുകൾ ബന്ധിപ്പിച്ചിരിക്കുന്നത് ആ വ്യത്യാസം പൂജ്യം ആണ് ഇത് അവർ തമ്മിൽ ഒരു വയർ കൊണ്ട് ബന്ധിപ്പിച്ചത് പോലെയല്ല അതിനാൽ അവരുടെ ഇടയിൽ ഷോർട്ട് സർക്യൂട്ട് ഇല്ല എന്നാൽ A0 അനന്തതയ്ക്ക് സമം ആയിരിക്കുമ്പോൾ അവർ തമ്മിലുള്ള വ്യത്യാസം ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിച്ച് നിർബന്ധിതമായി പൂജ്യം ആക്കിയിരിക്കുന്നതിനാൽ അവർ സാങ്കല്പികമായി ഷോർട്ട് ആയതായി വിളിക്കപ്പെടും നിങ്ങൾക്ക് ഈ വിശദീകരണം പല രൂപത്തിൽ കാണാൻ കഴിയും ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് ഓപ് ആമ്പിൻറെ രണ്ട് ഇൻപുട്ടുകൾ ഒരേ വോൾട്ടേജിൽ ആണെന്നായിരിക്കാം അല്ലെങ്കിൽ അവ തമ്മിൽ സാങ്കൽപ്പികമായി ഷോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നായിരിക്കാം അതുമല്ലെങ്കിൽ ഇത് ചിലപ്പോൾ അറിയപ്പെടുന്നത് ഓപ് ആമ്പിൻറെ ഇന്പുട്ടിലെ വെർച്വൽ ഷോർട്ട് എന്നായിരിക്കാം അങ്ങനെ പലവിധത്തിൽ പറയപ്പെടും അവയെല്ലാം അർത്ഥമാക്കുന്നത് ഒരേ കാര്യം തന്നെയാണ് ഇത് അർത്ഥമാക്കുന്നത് എന്തെന്നാൽ ഓപ് ആമ്പിൻറെ രണ്ട് ഇൻപുട്ട് ടെർമിനലുകൾക്കും ഒരേ വോൾട്ടേജ് ആണ് എന്നാണ് അതിനാൽ അവർ തമ്മിലുള്ള വ്യത്യാസം പൂജ്യം ആണ് ഇത് സംഭവിക്കുന്നത് A0 അനന്തതയ്ക്ക് സമമാകുമ്പോൾ മാത്രമാണ് പിന്നെ ഇത് സംഭവിക്കാൻ കാരണം നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് ഇപ്പോൾ അവർക്ക് ഒരേ വോൾട്ടേജ് ആയതിനാലും എന്നാൽ യഥാർഥത്തിൽ അവർ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടില്ലാത്തതിനാലും അവർ തമ്മിൽ സാങ്കല്പികമായി ഷോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു ഇപ്പോൾ ഓപ് ആമ്പ് ഇൻപുട്ട് വ്യത്യാസം Vd യും A 0 V d മൂല്യമുള്ള നിയന്ത്രണ ഉറവിടവും ഉള്ള വോൾട്ടേജിനാൽ നിയന്ത്രിതമായ ഒരു വോൾട്ടേജ് ഉറവിടം ആണ് ഇപ്പോൾ ഇൻപുട്ട് പൂജ്യം ആവുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നത് ഔട്ട്പുട്ടും പൂജ്യം ആകും എന്നാകും കാരണം ഇത് ഇൻപുട്ടിന് അനുപാതികമാണ് എന്നാൽ ഓർക്കുക ഈ ഇൻപുട്ട് വ്യത്യാസം പൂജ്യം ആകുന്നത് A0 അനന്തതയ്ക്ക് സമമാകുമ്പോൾ മാത്രമാണ് A0 അനന്തതയ്ക്ക് സമമാണെങ്കിൽ ഈ Vd പൂജ്യമാണ് അപ്പോൾ ഔട്ട്പുട്ട് A0×V d എന്നുള്ളത് ∞×0 ആണ് അനന്തതയോ പൂജ്യമോ ഉപയോഗിച്ച് ഗുണിച്ചു കൊണ്ട് നിങ്ങൾക്ക് ഔട്ട്പുട്ട് കണക്കുകൂട്ടാൻ സാധിക്കില്ല അതിനാൽ മറ്റു പരിമിതികളെ അടിസ്ഥാനപ്പെടുത്തി ഇത് നിങ്ങൾ കണ്ടുപിടിക്കണം ഉത്തമമായ ഓപ് ആമ്പ് ഉപയോഗിച്ചുള്ള സർക്യൂട്ട്കളുടെ വിശകലനത്തെ പറ്റി സംസാരിക്കുമ്പോൾ ഞാൻ അത് പരിഗണിക്കാം എന്നാൽ ഈ തെറ്റ് വരുത്തരുത് എന്തെന്നാൽ ഇൻപുട്ട് വോൾട്ടേജ് വ്യത്യാസം പൂജ്യം ആകുമ്പോൾ ഔട്ട്പുട്ട് പൂജ്യം ആകും എന്ന് അർഥമില്ല ഇൻപുട്ട് വോൾട്ടേജ് വ്യത്യാസം പൂജ്യം ആകുന്നത് ഓപ് ആമ്പ് ഗെയിൻ അനന്തത ആകുമ്പോൾ മാത്രമാണ് ഇപ്പോൾ ഓപ് ആമ്പ് ഗെയിൻ അനന്തതയാണെങ്കിൽ ഔട്ട്പുട്ട് പരിമിതം ആയിരിക്കുന്നിടത്തോളം ഇൻപുട്ട് പൂജ്യം ആയിരിക്കും കാരണം ഇൻപുട്ട് എന്നുള്ളത് ഔട്ട്പുട്ട് ∞ ആണ് അതിനാൽ അതിനെപ്പറ്റി ആശയക്കുഴപ്പത്തിൽ ആകരുത് ഗെയിൻ അനന്തത ആകുമ്പോൾ രണ്ട് ഇൻപുട്ടുകളും നെഗറ്റീവ് ഫീഡ് ബാക്കിൽ ആണെങ്കിൽ അവർ തമ്മിൽ സാങ്കൽപ്പികമായി ഷോർട്ട് ചെയ്യപ്പെട്ടിരിക്കും ഓപ് ആമ്പിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് വരുന്നതിനെ പറ്റി പിന്നീടുള്ള പാഠങ്ങളിൽ ഒന്നിൽ ഞാൻ വിശദമായി സംസാരിക്കാം